നമസ്കാരം നമ്മുടെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് അടിസ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച തുടരാം അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ NIST നിർവചിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിൻറെ അർത്ഥം നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റുന്ന വിഭവങ്ങളുടെ ഒരു പങ്കിടുന്ന പൂൾ മാതൃക നിങ്ങൾ ആവശ്യമായ സവിശേഷതകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ് ആണ് ഒരേ സർവീസ് സേവന ദാതാവിൽ നിന്ന് ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു ലിനക്സ് ഒരു പ്രധാന സ്വഭാവമാണ് മറ്റൊരു സവിശേഷത ഏതു തരത്തിലുള്ള സേവനങ്ങളും മെഷർഡ് വരികയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് RAM 4 GB യിൽ നിന്ന് 8 GB യിലേക്ക് കൂട്ടണം അപ്പോൾ കുറച്ച് സമയത്തേക്ക് ആയി എനിക്ക് കുറച്ചു കൂടുതൽ വിഭവങ്ങൾ ആവശ്യമായിവരും അതിനുള്ള വ്യവസ്ഥ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം അത് മാത്രമല്ല ഈ തരത്തിലുള്ള ഇലാസ്തികത അവിടെ ഉണ്ടാവുകയും വേണം അപ്പോൾ എൻറെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് മുകളിലേക്കും താഴേക്കും പോകാൻ കഴിയണം ക്ലൌഡിൻറെ ഇതൊരു പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഒരു സാധാരണ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിൻറെ എത്രത്തോളം വൈവിധ്യമാർന്ന വിഭവങ്ങൾ ആണ് ഉള്ളത് എന്ന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല എനിക്ക് ആവശ്യമുള്ളത് ഒരു ഏകതാനമായ കാര്യമാണ് ഇതിൻറെ ഒരു സവിശേഷത വിഭവങ്ങൾ പല സ്ഥലങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രധാന സ്വഭാവം വർച്ചുവലൈസേഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് സേവന ദാതാവ് ഉണ്ട് സേവന ഉപഭോക്താവ് ഉണ്ട് ഒരു രജിസ്ട്രി ആവും നോക്കുന്നത് അപ്പോൾ ഞാൻ ഹോം ഡെലിവറി തിരിച്ചറിയുക എന്നതാണ് ഇത് സാധാരണ ചിലവ് കുറഞ്ഞ സോഫ്റ്റ്വെയർ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കണം സിസ്റ്റം നഷ്ടപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നിവയെല്ലാം നോക്കേണ്ടതാണ് സാധാരണ ക്ലൌഡ് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് ആണ് ഇപ്പോഴെല്ലാം ഇൻറർനെറ്റിൽ സേവനദാതാവിൻറെ അടുത്തു സംഭരിക്കാൻ കഴിയും അതിൻറെ അർത്ഥം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എക്സ്റ്റേണൽ ക്ലൌഡുമായി

എനിക്ക് സോഫ്റ്റ്വെയർ ഒരു കടമയായി മാറും ഇതാണ് സോഫ്റ്റ്വെയർ ഒരു സേവനമായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് 4GB RAM ആവശ്യമുള്ളത് നാളെ വേറെ ഏതെങ്കിലും ഒരു ജോലിക്കായി എനിക്ക് 64GB RAM ആവശ്യമായി വരാം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ പ്രവർത്തികൾ ചെയ്യാനായി 2GB RAM മാത്രം എനിക്ക് അതിനടുത്ത ദിവസം ആവശ്യമായി വരാം അപ്പോൾ സാധാരണയായി അങ്ങനെ മാറുന്ന രീതിയിലുള്ള ആവശ്യകതകൾ എനിക്ക് ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു സേവനമായി ഞാൻ ഉപയോഗിക്കേണ്ടതായി വരും പ്ലാറ്റ്ഫോം നൽകുന്നവ അതുവഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ജോലി ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തിനെയും നമുക്ക് ഒരു സേവനമായി ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനെ XaaS തരത്തിലുള്ളത് എന്ന് പറയാം എന്തിനെയും മാതൃകയാക്കുന്ന സേവന രീതിയെയാണ് നമ്മൾ XaaS എന്ന രീതിയിൽ തിരിച്ചറിയുന്നത് ഈ സ്റ്റാക്കിലേക്ക് മുതലായവയും ഉണ്ടാവും അപ്പോൾ ഇവിടെ കൂടുതലും പ്ലാറ്റ്ഫോം തുടങ്ങി വ്യത്യസ്ത കാര്യങ്ങൾ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം ക്ലൈൻറ്റ് ഉപയോഗിച്ചാണ് മനസ്സിലായോ ഇനി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്ലോയ്മെൻറ് ഒരു സേവനം എന്ന നിലയിലാണ് ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ ഡേറ്റ തരത്തിലുള്ളവ ഇതാണ് പബ്ലിക് ക്ലൌഡുകൾ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് പറയാം ബാങ്ക് സെക്ടറിൽ ഉണ്ടാവണം ഒരുപാട് ഓർഗനൈസേഷനുകൾ മാതൃകയിലെ വ്യത്യസ്ത തരങ്ങൾ തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് നോക്കാം പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ക്ളൌഡും കാര്യങ്ങൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് വ്യത്യസ്ത ഹാർഡ്വെയർ ഉണ്ട് എന്നാണ് അവ വ്യത്യസ്ത നെറ്റ്വർക്കുകളിൽ എന്നിവ എനിക്ക് ആവശ്യമുണ്ട് ഈ വ്യത്യസ്ത രീതിയിലുള്ള മെഷീനുകൾ എമുലേറ്റ് നിന്ന് വ്യവസ്ഥ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഉത്തരം ആകും ഇതിൻറെ മറ്റൊരു സ്വഭാവം ഇതിനെ എങ്ങനെ വ്യത്യസ്ത വിർച്ച്വൽ മെഷീനുകൾ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ട് അത് നമുക്ക് വരുന്ന പ്രഭാഷണങ്ങളിൽ നോക്കാം ഇതിലേക്ക് നോക്കുക വിർച്വൽ മെഷീൻ ടെക്നോളജി ആയി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഇതാണ് എൻറെ ഹാർഡ്വെയർ ചെയ്യാൻ സഹായിക്കുന്നു ലിനക്സ് ആണ് ഇവിടത്തെ ഗസ്റ്റ് വെർച്വലൈസേഷൻ ഇൻ ജനറൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും ഇനി ക്ലൌഡ് സോഴ്സിംഗ് അത് പ്രയോജനപ്രദം ആണോ എപ്പോഴൊക്കെയാണ് അവ പ്രയോജനപ്രദം ആകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു പ്രത്യേക പ്രഭാഷണത്തിൽ നോക്കാം വെബ് ബ്രൌസർ ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രകടനം വിശ്വാസ്യത സേവന വ്യവസ്ഥ എന്നിവയാണ് എന്തായിരിക്കണം പ്രകടനം എത്രത്തോളം വിശ്വാസ്യത ഉണ്ടായിരിക്കും അതായത് സേവനം എപ്പോഴും ലഭിക്കുമോ എന്നുള്ളത് സേവന വ്യവസ്ഥയുടെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ടാവാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചിലപ്പോൾ ചില കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് ആവാം അതിനെ മാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഡേറ്റയും ചെയ്യുന്നത് എന്നുള്ളതു നോക്കണം ആപ്ലിക്കേഷൻ ദാതാവിൽ നിന്ന് വാങ്ങുകയാണ് അങ്ങനെയുള്ളവ API സ്റ്റാൻഡേർഡൈസേഷൻ ആവശ്യങ്ങൾക്ക് ആയാണ് നമ്മൾ ഇത് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇത് തികച്ചും ഗുരുതരമാകും ഇതിന് തികച്ചും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ ഉള്ളതിനാലാണ് നമ്മൾ ക്ലൌഡ് സംഭരണത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് സമയം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സംഭരണത്തിൻറെ സ്വഭാവങ്ങളിലേക്ക് നോക്കാം പക്ഷേ ഇതൊരു മുഖ്യ ഘടകമാണ് എന്ന് പറയാനുള്ള കാരണം ഉപഭോക്താവിനും സേവന ഉപഭോക്താവിനും ഉപയോക്താവിനും ഒരുപാട് പ്രധാനപ്പെട്ടതാണ് ഡേറ്റ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് റിമോട്ട് EC2 S3 എന്നിവ എടുത്തു പറയാനുള്ള ഒരു പ്രയോജനമാണ് കുറഞ്ഞ കമ്പ്യൂട്ടിംഗ് ചിലവ് മെച്ചപ്പെട്ട പ്രകടനം പ്രകടനം മൊത്തത്തിൽ മെച്ചപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ കൂടുതൽ വില കൊടുത്താണ് ഇത് വാങ്ങിക്കുന്നത് തീർച്ചയായും സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിനു ശ്രദ്ധ കൊടുത്തിരിക്കണം സൈദ്ധാന്തികമായി പരിധിയില്ലാത്ത സംഭരണം ഞാൻ പൈസ കൊടുക്കുന്നതിനനുസരിച്ച് എനിക്ക് സംഭരണം ലഭിക്കുന്നു ഇത് ഡേറ്റയുടെ ആയിരിക്കും ഇവയെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഇതെല്ലാം നല്ല കാര്യങ്ങൾ ആണെങ്കിൽ കൂടി ഇവിടെയും ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആശങ്കകൾ അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ട് അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻറർനെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സേവനങ്ങൾ ഒന്നും ലഭിക്കുകയില്ല വേഗത കുറഞ്ഞ കണക്ഷനിൽ ഇത് നന്നായി പ്രവർത്തിക്കുകയില്ല നെറ്റ്വർക്ക് കണക്റ്റിവിറ്റി ചെയ്യുന്നതെങ്ങനെ എന്നുള്ള കാര്യങ്ങളും നോക്കണം നമുക്ക് ഇവിടെ നിർത്തിയതിനുശേഷം ഇനിയുള്ള പ്രഭാഷണങ്ങളിൽ വ്യത്യസ്ത ആർക്കിടെക്ചറുകളെ കുറിച്ച് നോക്കാം